അസംബ്ലി ഡ്രോയിംഗ് ഹലോ ഞാൻ ഗൌരവ് സിംഗ് പ്രൊഫസർ രാജാറം ലക്കരാജു എടുത്ത ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കോഴ്സിന്റെ ടീച്ചിംഗ് അസിസ്റ്റന്റാണ് സോളിഡ് വർക്ക്സ് സോഫ്റ്റ്വെയറിൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത ഭാഗങ്ങളുടെ അസംബ്ലിയിൽ നിന്ന് നമ്മൾ തുടരും നമ്മൾ ഇതിനകം കണ്ടു ഭാഗങ്ങളുടെ രൂപകൽപ്പന സംബന്ധിച്ച് നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കാം ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ ഒരു പ്രധാന കാര്യം ഉണ്ട് അവ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ഡിസൈൻ നിർമ്മിക്കുന്നതിന് ആ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക അത്തരം ലളിതമായ ഗാർഹിക ഇനങ്ങളിലൊന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനാകുന്ന ഒരു കത്രികയാണ് ഈ കത്രികയെ ബ്ലേഡുകൾ അതിന്റെ ഹാൻഡിൽ പിൻ നമ്മൾ പറയുന്ന പിവറ്റ് എന്നിങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിനാൽ പ്രത്യേകിച്ചും 5 ഭാഗങ്ങൾ ഇവിടെ ഈ പ്രത്യേക കത്രിക നിർമ്മിക്കുന്നതിനായി ഒത്തുചേർന്നു ഈ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം സോളിഡ് വർക്ക് സോഫ്റ്റ്വെയറിലെ പാലറ്റുകളിലെ എല്ലാത്തരം ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ ഭാഗങ്ങൾ ഓരോന്നും നീങ്ങളുടെ മുൻ കോഴ്സിൽ രൂപകൽപ്പന ചെയ്യാൻ പഠിച്ചു അതിനാൽ ഈ പ്രത്യേക ഭാഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇവയെ കൂട്ടിച്ചേർക്കാനും ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഘടകങ്ങളെ ഒരു യന്ത്രങ്ങൾ നിർമ്മിക്കാനും കഴിയും അതിനാൽ ഇതിലൊന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കത്രികയാണ് മറ്റൊരു ലളിതമായ ഡിസൈൻ നമുക്കുള്ള മറ്റൊരു രൂപകൽപ്പന ഇത് ഒരു കാറ്റാടിയന്ത്രം ആണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് പുനരുപയോഗോർജ്ജത്തിന്റെ വളരെ പ്രചാരമുള്ള ഉറവിടമാണ് ഈ ഉപകരണത്തിൽ ബ്ലേഡുകൾ ടർബൈനുകൾ മോട്ടോർ എഞ്ചിൻ എന്നിവ ഉൾപ്പെടുന്നു നമുക്ക് കാണാനാകുന്ന ഈ പീഠം ഈ ബ്ലേഡ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ കാറ്റാടിയന്ത്രം ഈ സോഫ്റ്റ്വെയറിൽ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇതിന്റെ വ്യക്തിഗത ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും കൂടാതെ നമുക്ക് കാണാം കൂടാതെ വിൻഡ് ടർബൈൻ രൂപീകരിക്കുന്നതിന് ഇതിന്റെ അസംബ്ലി കാണാം ഈ സോഫ്റ്റ്വെയർ സോളിഡ് മെക്കാനിക്സ് സോളിഡ് വർക്കുകളുടെ ഒരു നല്ല ഫീച്ചേഴ്സ് ഈ സോളിഡ് വർക്കുകളുടെ നല്ല ഫീച്ചേഴ്സ് ഇത് ബ്ലേഡുകൾ കാണാൻ കഴിയുന്ന സോളിഡുകളുടെ മെക്കാനിക്സിനെ അനുകരിക്കുന്നതിനാൽ ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് കാറ്റിന്റെ ദിശയിൽ ബ്ലേഡുകൾ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം മുഴുവൻ സജ്ജീകരണവും മോട്ടോർ പ്രവർത്തിപ്പിച്ചേക്കാം കാരണം കാറ്റ് ബ്ലേഡുകളെ ബാധിക്കും അതിനാൽ ഇതാണ് ഒരു രൂപകൽപ്പനയാണ് നമുക്ക് കാണാനാകുന്ന ഈ ട്രാക്ടർ നിർമ്മിക്കുന്നത് പോലുള്ള സങ്കീർണ്ണമായ ഇനങ്ങളുടെ അസംബ്ലിയെ സോളിഡ് വർക്കുകൾ പിന്തുണയ്ക്കുന്നു ഒന്നിലധികം ഘടകങ്ങൾ ശേഖരിച്ചാണ് മനോഹരമായ ട്രാക്ടർ രൂപപ്പെടുത്തിയിരിക്കുന്നത് വലിയ ടയറുകൾ ചെറിയ ടയർ എഞ്ചിനുകൾ സ്മോക്ക് എക്സ്ഹോസ്റ്റ് എന്നിവയും ഈ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ട്രാക്ടർ രൂപീകരിക്കുന്നതിന് ഇത് വളരെ മനോഹരമായി ഒത്തുചേരുന്നു ഈ അസംബ്ലികളിലെല്ലാം നമ്മൾ ഓരോന്നായി കടന്നുപോകുന്ന ചില പ്രാഥമിക അസംബ്ലി പദങ്ങൾ ഉൾക്കൊള്ളുന്നു സോളിഡ് വർക്ക്സിലെ അസംബ്ലി ഇവിടെ കൂടിച്ചേരുന്നതന്റെ പര്യായമാണ് കൂടിച്ചേരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ അസംബ്ലി വിഭാഗത്തിൽ പ്രാഥമികം മുതൽ ഘടകങ്ങൾ എങ്ങനെ ചേർക്കാമെന്നും ഈ ഉപകരണങ്ങളെല്ലാം ഇവിടെ പഠിക്കാനാകും അതിനാൽ നമുക്ക് ആദ്യം മുതൽ ആരംഭിക്കാം ഇപ്പോൾ മുതൽ ഒരു പുതിയ ഡോക്യുമെന്റ് തുറക്കാൻ നമ്മൾ ഈ ന്യൂ കമാൻഡ് ഉപയോഗിക്കുന്നു ഞങ്ങൾ ഈ ഭാഗം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ അസംബ്ലിയിലൂടെ പോകുമ്പോൾ ഈ അസംബ്ലിയിൽ ക്ലിക്കുചെയ്യണം ശരി ഈ അസംബ്ലി വിൻഡോ ഇതുപോലെ കാണപ്പെടുന്നു ഒന്നിലധികം ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തണം തുടർന്ന് ബ്രൌസിലൂടെ പോകുമ്പോൾ അത് തുറക്കും അതിനാൽ കാര്യങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് നമ്മൾ കുറച്ച് കൂട്ടിച്ചേർക്കാം ഈ ചില ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കും അതിനാൽ ഈ കത്രിക കണ്ട്രോൾ ബട്ടൺ അമര്തിപിടിച്ചുകൊണ്ടു ഒന്നിലധികം വസ്തുക്കൾ സെലക്ട് ചെയ്യുക ഓപ്പൺ ക്ലിക്കുചെയ്യുക സോളിഡ് വർക്ക്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യ ഭാഗം അതിനാൽ ഈ രീതിയിൽ നമുക്ക് കഴിയും ഇപ്പോൾ വരെ നമ്മൾ പുതിയ പ്രമാണം ചർച്ചചെയ്തു നമ്മൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ അസംബ്ലിയിൽ ക്ലിക്കുചെയ്യുന്ന ഈ അസംബ്ലിയിൽ പ്രവർത്തിക്കും അസംബ്ലിയിൽ ക്ലിക്കുചെയ്യുക ശരി അതിനാൽ ഈ വിൻഡോ നിങ്ങളോട് ചില ഭാഗങ്ങൾ തുറക്കാൻ ആവശ്യപ്പെടും ഈ അസംബ്ലി വിൻഡോയുടെ വിൻഡോ രൂപമാണിത് നിങ്ങൾ മുന്നോട്ട് പോകും ഈ ഉൾപ്പെടുത്തൽ ഘടകത്തിലേക്ക് പോകണം തുടർന്ന് ബ്രൌസിലേക്ക് പോകുക നിങ്ങൾ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എല്ലാ ഭാഗങ്ങളും തിരഞ്ഞെടുത്ത് നിയന്ത്രിക്കുക തുറക്കുക ക്ലിക്കുചെയ്യുക അതിനാൽ നമ്മൾ മുമ്പ് കണ്ട ആ കാറ്റ് ടർബൈൻ നിർമ്മിക്കാൻ ആവശ്യമായ ഭാഗങ്ങൾ ഇവയാണ് അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഈ വിൻഡോയിൽ ഘടകങ്ങൾ ചേർക്കാൻ കഴിയും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നിങ്ങൾ സ്ഥാപിച്ച ആദ്യത്തെ ഘടകമാണ് വിൻഡോയിൽ സ്ഥാപിച്ചിരിക്കുന്നതായി നിങ്ങൾ കണ്ടു ഇത് സ്ഥിരമായി തുടരും അത് എവിടേയും നീങ്ങാൻ കഴിയില്ല എന്നിരുന്നാലും മറ്റ് ഭാഗങ്ങൾ നീക്കാൻ കഴിയും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഈ നീക്കം നടത്താൻ ഇത് നിലനിർത്താൻ ഈ ഒബ്ജക്റ്റിൽ വലത് ക്ലിക്കുചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഫ്ലോട്ടിൽ ക്ലിക്കുചെയ്യാം അതിനാൽ ഇത് ഇപ്പോൾ മുതൽ പൊങ്ങിക്കിടക്കും ഒരു റഫറൻസ് നടത്താൻ നിങ്ങൾക്ക് മറ്റാരെയും ശരിയാക്കാനാകും ഇത് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു ഇവയെല്ലാം നീങ്ങുന്നു അതിനാൽ ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും പൊങ്ങിക്കിടക്കാനും ചില ഇനങ്ങൾ ശരിയാക്കാനും കഴിയും ഈ ദൃശ്യപരത ഐക്കൺ കാണാൻ ചില ഉപകരണങ്ങൾ ഉണ്ട് ഇതിന്റെ ഉത്ഭവം ഓരോ ഇനങ്ങളുടെയും ഉത്ഭവം ഓരോ ഇനത്തിന്റെയും ഉത്ഭവം നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഇവിടെ നിന്ന് പ്രതലങ്ങൾ കാണാൻ കഴിയും നമ്മൾ ഈ ഹൈഡ് ആൻഡ് ഷോ ഐറ്റം ഇതിൽ പോയി പ്ലെയിൻസ് ൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് മുൻ തലം വലത് തലം കാണാം ഞങ്ങൾ മുമ്പ് രൂപകൽപ്പന ചെയ്ത ഈ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അടിസ്ഥാന മാർഗ്ഗമാണിത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെയുള്ള ഒരു ഭാഗം രൂപകൽപ്പന ചെയ്യുകയായിരുന്നുവെന്ന് കരുതുക ഈ ഭാഗം വിൻഡോയിൽ നിങ്ങൾക്ക് പരിചിതമായ മുമ്പത്തെ വിൻഡോ ഇതാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റ് ഭാഗങ്ങൾ ഇതിനകം തയ്യാറായിക്കഴിഞ്ഞു അസംബ്ലിയിൽ ഇത് ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ഈ ഫയലിലേക്ക് പോകണം അതിനാൽ നിങ്ങൾ ചർച്ച ചെയ്ത അതേ അവസാന വിൻഡോ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഇറക്കുമതി ചെയ്യാൻ കഴിയും തുടർന്ന് ബ്രൌസിലും നിങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മറ്റ് ഇനങ്ങളിലും ഘടകം വീണ്ടും ചേർക്കുക ഇപ്പോൾ ഈ ഇനങ്ങളെല്ലാം പരസ്പരം കൂട്ടിച്ചേർക്കാൻ സോളിഡ് വർക്കുകളിൽ ലഭ്യമായ വ്യത്യസ്ത തരം അസംബ്ലികൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഈ അസംബ്ലി സോഫ്റ്റ്വെയറിലെ കൂട്ടിച്ചേർക്കലിന്റെ പര്യായമാണെന്ന് നമ്മൾ ഇതിനകം നിങ്ങളോട് പറഞ്ഞതായി നമുക്ക് കാണാം നിങ്ങൾ മേറ്റ് ൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് മേറ്റ് വിപുലമായ മേറ്റ് മെക്കാനിക്കൽ മേറ്റ് എന്നിവ ഇവിടെ കാണാം സ്റ്റാൻഡേർഡ് മേറ്റ് ൽ കോയിൻസിഡന്റ് പാരലൽ പെർപെൻഡിക്ക്യൂലർ ടാൻജൻറ് കോൺസെൻട്രിക് മറ്റും ഉണ്ട് ഉയർന്ന വികസിത മേറ്റ് ഹിഞ്ച് ഗിയർ റാക്ക് പിനിയൻ ഇനിയും ധാരാളം അതിനാൽ അവിടെ ഓരോന്നും അവയിൽ ഓരോന്നിലൂടെയും നിങ്ങൾ കടന്നുപോകും അവരിൽ ചില പ്രാഥമിക കൂടിച്ചേരുകളിലൂടെ ഓരോന്നായി നിങ്ങൾ കടന്നുപോകും നമുക്ക് ഒരു പുതിയ പ്രമാണം ഒരു പുതിയ അസംബ്ലി തുറക്കാം എനിക്ക് ഇവിടെ രണ്ട് ബ്ലോക്കുകൾ ഉണ്ട് രണ്ട് തടി ബ്ലോക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഈ പസിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് കൂടിച്ചേരലിലൂടെ പോകാം ഈ മേറ്റ് തിരഞ്ഞെടുപ്പിന് ഒരു വിന്ഡോയുണ്ട് നമ്മൾ ഇവിടെ കാണും അതിൽ നമ്മൾ ക്ലിക്കുചെയ്യേണ്ട ചെറിയ വിൻഡോയും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഫേസുകൾ തിരഞ്ഞെടുക്കുക അതിനാൽ ഇതിൽ ആദ്യത്തേതിൽ ഒന്ന് ഈ കോഇൻസിടന്റ് മേറ്റ് ആണ് കോഇൻസിടന്റ് മേറ്റ് നിങ്ങൾ ഒത്തുചേരാനോ കൂടിചേരാനോ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ യോജിക്കും ഈ എഡ്ജ് ഈ പ്രത്യേക അരികിൽ ഉറച്ചുനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ കഴിയും ഇത് ഈ അരികുമായി വിന്യസിക്കുകയും നിങ്ങൾ ശരി ക്ലിക്കുചെയ്തുകഴിഞ്ഞാൽ ഇത് ഇതുമായി കൂട്ടിച്ചേർക്കാൻ ചെയ്യും അതിനാൽ ഇത് ഈ അരികുമായി വിന്യസിച്ചിരിക്കുന്നു എന്നിരുന്നാലും ചലനാത്മക സ്വാതന്ത്ര്യത്തിന്റെ അളവ് കുറവായതിനാൽ ഇത് നീങ്ങുകയും കറങ്ങുകയും ചെയ്യും എന്നിരുന്നാലും വിന്യാസം എല്ലാം തുല്യമാണ് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ഭാഗം നീക്കാൻ കഴിയില്ല കാരണം ആദ്യം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആദ്യ ഇനം ഈ ബ്ലോക്കായിരുന്നു ഇത് എനിക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഈ ഫ്ലോട്ട് നിർമ്മിക്കാൻ ഉറപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇവ രണ്ടും നീക്കാൻ കഴിയും എന്നാൽ ഒരു റഫറൻസ് നടത്താൻ നിങ്ങൾക്ക് പരിഹരിക്കേണ്ട ഇനങ്ങളിൽ ഒന്ന് ആവശ്യമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് ശരിയാക്കാം ഇതിൽ ശരിയാക്കി അതിനാൽ ഇപ്പോൾ ഇത് നീങ്ങുന്നു ഇത് പരിഹരിച്ചു അതിനാൽ ഇത് കോഇൻസിടന്റ് മേറ്റ് ആണ് മറ്റൊരു കാര്യം ഈ യാദൃശ്ചിക മേറ്റ് ൽ നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന സവിശേഷത ഉറവിടം പരിഹരിക്കുക എന്നതാണ് ഈ പ്രത്യേക ബ്ലോക്കിന്റെ ഉത്ഭവം ഉണ്ടെന്ന് കരുതുക ഈ ഉത്ഭവം ഇവിടെ കാണാം എന്നിരുന്നാലും ഈ ജ്യാമിതിയുടെ ഉത്ഭവം ഈ മുഴുവൻ കളിയുടെയും ഉത്ഭവം ഈ മുഴുവൻ വിൻഡോയും ഇവിടെയുണ്ട് അതിനാൽ ഈ അസംബ്ലി ഉത്ഭവത്തിൽ നിന്ന് ആരംഭിക്കണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേര്ന്നതിന്റെയും ഈ ഇനത്തിന്റെ ഉത്ഭവത്തെയും ഈ ഇനത്തിന്റെ ഉത്ഭവത്തെയും ഈ മേറ്റ് നെയും ഇവിടെ തിരഞ്ഞെടുത്ത് ശരി ക്ലിക്കുചെയ്യുക അതിനാൽ ഇത് കൂട്ടിച്ചേര്ന്നട്ടില്ല കാരണം ഈ ഇനം പരിഹരിച്ചിരിക്കുന്നു കൂടാതെ നിങ്ങൾ ഇതിനകം തന്നെ ഈ അരികിൽ ഇതിന്റെ അരികിൽ വിന്യസിച്ചു അതിനാൽ ഞങ്ങൾ ഈ ഫ്ലോട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഇപ്പോൾ മുഴുവൻ പ്രതലത്തിന്റെയും ഉത്ഭവം ഈ ബോക്സിന്റെ ഈ ഉറവിടവുമായി വിന്യസിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഇത് ഇപ്പോൾ പൊങ്ങിക്കിടക്കുന്നതിനാൽ ഇത് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു കാരണം ഇത് പ്രതലത്തിന്റെ ഉത്ഭവവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് കോഇൻസിടന്റ് മേറ്റ് ആണ് ഈ അസംബ്ലിയിലെ ചരിത്രം നമുക്ക് ഇവിടെ മേറ്റ് കാണാൻ കഴിയും നിങ്ങൾ ചെയ്തത് രണ്ട് ബ്ലോക്കുകളുടെ അരികുകൾക്കിടയിലുള്ള ആദ്യത്തെ കോഇൻസിടന്റ് മേറ്റ് ആണ് രണ്ടാമത്തേത് ഇങ്ങനെ കൂടിചേരൽ ഈ ബ്ലോക്കും തലം കോർഡിനേറ്റും ഇത് നമുക്ക് കോയിൻസിഡന്റ് മേറ്റ് ഇവിടെ കാണാം മറ്റൊന്ന് പാരലൽ മേറ്റ് ഉം മുമ്പുള്ളവയെല്ലാം നമുക്ക് നീക്കംചെയ്യാം ഇപ്പോൾ വീണ്ടും എല്ലാഭാഗവും ഫ്രീ ആണ് നിങ്ങൾ ഇത് പരിഹരിക്കും അടുത്ത തരത്തിലുള്ള മേറ്റ് സമാന്തര മേറ്റ് ആണ് ഈ മേറ്റ് ഇൽ നമുക്ക് രണ്ട് പ്രതലങ്ങൾ പരസ്പരം സമാന്തരമാക്കാം ഇപ്പോൾ ഇവ രണ്ടും പരസ്പരം സമാന്തരമായി വിന്യസിച്ചിട്ടില്ലെന്ന് നമുക്ക് കാണാം സമാന്തരമാക്കാൻ നമ്മൾ ഇവിടെയുള്ള ചെറിയ വിൻഡോയിൽ ക്ലിക്കുചെയ്യും തുടർന്ന് ഘട്ടം 1 തുടർന്ന് ഘട്ടം 2 നിങ്ങൾ ശരി ഫിനിഷ് മേറ്റ് എന്നിവയിൽ ക്ലിക്കുചെയ്യും രണ്ട് ഘട്ടങ്ങളും പരസ്പരം സമാന്തരമാണ് ഈ പദസമുച്ചയവും ഇതിലെ ആദ്യത്തേതും അവ എല്ലായ്പ്പോഴും പരസ്പരം സമാന്തരമായി തുടരും നമുക്ക് ഇത് വീണ്ടും കാണാൻ കഴിയും ഇത് നീക്കംചെയ്യുകയാണെങ്കിൽ ഇതാണ് കൂടിച്ചേരൽ കൂടിച്ചേർന്ന ഭാഗം വീണ്ടും തിരഞ്ഞെടുക്കും ഇപ്പോൾ നമുക്ക് ഈ പ്രതലം തിരഞ്ഞെടുക്കാം ഈ മുഖം ഇപ്പോൾ ഇത് പരസ്പരം സമാന്തരമായി നമുക്ക് സമാന്തരത്തിൽ ക്ലിക്കുചെയ്യുക ഇത് പരസ്പരം സമാന്തരമാണ് എവിടെ നീങ്ങിയാലും അത് സമാന്തരമായി തുടരും അടുത്ത തരത്തിലുള്ള മേറ്റ് ലംബ മേറ്റ് ആണ് ഈ സമാന്തര മേറ്റ് ആയി ഇത് വളരെ സാമ്യമുള്ളതാണ് മുമ്പത്തെ ഒന്ന് ഇല്ലാതാക്കാം ഈ സമാന്തര മേറ്റ് നിങ്ങൾ നീക്കംചെയ്യുകയും പെർപെൻഡിക്യൂലർ മേറ്റ് ലേക്ക് നീങ്ങുകയും ചെയ്യും ഈ ചെറിയ വിൻഡോയിൽ വീണ്ടും ക്ലിക്കുചെയ്യുക ഈ മുഖം ഇതിനെ ലംബമാക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് പറയുന്നതിനോ നമുക്ക് കാണാം ശരി ക്ലിക്കുചെയ്യുക അതിനാൽ ഇപ്പോൾ ഈ മുഖം എല്ലായ്പ്പോഴും ഈ മുഖത്തിന് ലംബമാണ് ഏതുവിധേനയും അത് നീങ്ങുന്നു പക്ഷേ ഇത് ഇവ രണ്ടിനും ലംബമായി തുടരുന്നു അടുത്ത തരത്തിലുള്ള മേറ്റ് ടാൻജെന്റാണ് നിങ്ങൾ സർക്കിളുകളുമായി ഇടപെടേണ്ടിവരും ഈ ടാൻജെന്റുമായി നിങ്ങൾ ഇടപെടുമ്പോൾ ഒരുതരം കൂടിച്ചേരലാകാം ഈ ടാൻജെന്റ് മേറ്റ് മനസിലാക്കാൻ നമുക്ക് ചില പുതിയ ജ്യാമിതി ലോഡുചെയ്യാം നിങ്ങൾക്ക് ഒരു പിൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ഉണ്ട് സാധാരണയായി ഇത്തരം കാര്യങ്ങൾ മീറ്ററുകളിലും ഓഡോമീറ്ററുകളിലും താപനിലയും മറ്റ് പാരാമീറ്ററുകളും ക്രമീകരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നോബുകളിലും നമുക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പിൻ ഇതിലൂടെ സഞ്ചരിക്കേണ്ടതാണ് പൊതുവായ ഒരു അവബോധത്തിൽ നിന്ന് ഈ പ്രത്യേക ഉപരിതലം ഈ വൃത്താകൃതിയിലുള്ള സിലിണ്ടറിൽ സ്പർശിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ചെയ്യുന്നതിന് നമുക്ക് ഇത് ഇവിടെ നീക്കാൻ കഴിയും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ഇങ്ങനെയായിരിക്കണം നമുക്ക് ഇത് ശരിയാക്കി ഈ പിൻ ഫ്ലോട്ടിംഗ് ആയി മാറ്റാം ശരി നിങ്ങൾക്ക് ഇപ്പോൾ കൂടിച്ചേരൽ ഇല്ലാത്തതിനാൽ നമുക്ക് അത് എവിടെ നിന്നും നീക്കാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഈ ടാൻജെന്റ്മേറ്റ് പരീക്ഷിക്കാം ഈ ടാൻജെന്റിൽ ഞാൻ മേറ്റ് ലേക്ക് പോകുംനിങ്ങൾ ഈ ചെറിയ വിൻഡോയിൽ വീണ്ടും ക്ലിക്കുചെയ്യുന്നു വൃത്താകൃതിയിലുള്ള ഉപരിതലവും അതിന്മേൽ സ്പർശിക്കേണ്ട ഉപരിതലവും തിരഞ്ഞെടുക്കുക നിങ്ങൾ ശരി ക്ലിക്കുചെയ്യും ടാൻജെന്റ് തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ ഇവിടെ ശരി ക്ലിക്കുചെയ്യുക അല്ലെങ്കിൽ മിനി ടൂൾബോക്സിൽ പൂർത്തിയാക്കുക ഇത് ഇപ്പോൾ ഇതിനോട് സ്പർശിക്കുന്നു ഇത് ഇപ്പോൾ ഈ ഉപരിതലത്തിലേക്ക് സ്പർശിക്കുന്നു എന്നിരുന്നാലും ഇത് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം ഇതിനുള്ള മറ്റ് സ്വാതന്ത്ര്യത്തെ നിങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഈ സ്ലോട്ടിൽ ഇത് ലോക്കുചെയ്യുന്നതിന് നിങ്ങൾക്ക് മറ്റ് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് അതിനാൽ ഇതിനായി ഈ രണ്ട് പ്രാതലങ്ങളും സ്ലോട്ടും പിന്നും പരസ്പരം വിന്യസിക്കാം ഇത് ചെയ്യുന്നതിന് നിങ്ങൾ നേരത്തെ പഠിച്ചതുമായി വീണ്ടും പൊരുത്തപ്പെടും നിങ്ങൾ മേറ്റ് ലേക്ക് പോകും ഇവ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾ രണ്ട് ജ്യാമിതി പിൻ സ്ലോട്ട് ജ്യാമിതി എന്നിവ തിരഞ്ഞെടുക്കും ഇതിനായി നിങ്ങൾ മുൻ തലം ഇതിനുള്ള മുകളിലെ തലം സ്ലോട്ടിനുള്ള മുകളിലെ തലം എന്നിവ പരിശോധിക്കും കണ്ട്രോൾ ബട്ടൺ അമര്തിപിടിച്ചുകൊണ്ടു ഇവ രണ്ടും തിരഞ്ഞെടുത്തുകൊണ്ട് ഈ സ്ലോട്ടിനായുള്ള മുകളിലെ തലം കൺട്രോൾ കീകളുള്ള മുകളിൽ ക്ലിക്കുചെയ്യുക കീ സ്ഥാപിച്ചിരിക്കുന്നു പിൻസിനായി മുകളിലെ തലം ഞങ്ങൾ തിരഞ്ഞെടുക്കും തുടർന്ന് മേറ്റ് ക്ലിക്കുചെയ്യുക അത് യാന്ത്രികമായി യോജിക്കാൻ നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനോ കഴിയും എന്നാൽ ഇത് പൊരുത്തപ്പെടാൻ നിർദ്ദേശിക്കുന്നതെന്തും പോകുന്നു അത് നിങ്ങൾക്ക് നല്ലതായിരിക്കണം നിങ്ങൾ ശരി ക്ലിക്കുചെയ്യുക ഇത് ഇപ്പോൾ ലോഗ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം ഇപ്പോൾ ഇത് സ്ലോട്ടിനുള്ളിൽ നീങ്ങുന്നത് കാണാം അത് കാണാൻ സ്പർശിക്കുന്നു അത് സ്ലോട്ട് ഉപരിതലമാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിച്ച രണ്ട് മേറ്റ് ടാൻജെന്റ് ആണ് സിലിണ്ടറിന്റെ ഉപരിതലവും സ്ലോട്ടിന്റെ ഉപരിതലവും ഇവ രണ്ടിന്റെയും യാദൃശ്ചിക പ്രതലങ്ങളായ പിൻ സ്ലോട്ട് എന്നിവയാണ് അതിനാൽ ഇത് നിങ്ങൾ ചർച്ച ചെയ്തത് ടാൻജെന്റ് മേറ്റ് ആണ്